ലോ പവർ ഡിസൈനിനെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ തുടരുന്നു ഞങ്ങളുടെ അവസാനത്തെ പ്രഭാഷണത്തിൽ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ CMOS സർക്യൂട്ടുകളിലെ പവർ ഡെസിപേഷന്റെ വിവിധ സോഴ്സ്കളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു ഈ പ്രഭാഷണത്തിൽ ചില ഡിസൈൻ മാറ്റങ്ങൾ ചില ഡിസൈൻ നിയമങ്ങൾ പാലിച്ചുള്ള ഡിസൈൻ പരിഷ്ക്കരണങ്ങൾ അത്തരം വിവിധ ടെക്നിക്കുകൾ എന്നിവയിലൂടെ പവർ ഡെസിപേഷൻ എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ ഞങ്ങൾ ആരംഭിക്കും അവ ഓരോന്നായി നോക്കാം ഇന്ന് ഇവിടെ ചർച്ചാ വിഷയം പവർ കുറയ്ക്കുന്നതിനുള്ള സാങ്കേതികതകളാണ് ഞാൻ ടെക്നിക്കുകളെക്കുറിച്ച് പറയുമ്പോൾ ഈ ടെക്നിക്കുകൾ ട്രാൻസിസ്റ്റർ തലത്തിലുള്ള ഉപകരണങ്ങളുടെ തലത്തിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് കാണാം കൂടാതെ അവ വളരെ ഉയർന്ന ഡിസൈൻ തലങ്ങളിൽ പ്രവർത്തിച്ചേക്കാം ആർക്കിടെക്ചർ തലത്തിലായിരിക്കാം അതിനാൽ ഉയർന്ന തലത്തിലാണെങ്കിൽപ്പോലും നിങ്ങൾ ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് ചില ഡിസൈൻ തീരുമാനങ്ങൾ എടുക്കാം അത് ആത്യന്തികമായി പവർ ഡിസ്പേഷനെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ബാധിക്കും അതിനാൽ ഞങ്ങൾക്ക് ട്രാൻസിസ്റ്റർ ലെവൽ സർക്യൂട്ട് ലഭിച്ചുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പവറിനെക്കുറിച്ച് ചിന്തിക്കാവു എന്നല്ല നിങ്ങൾ സർക്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ വളരെ ഉയർന്ന തലത്തിൽ ബിഹേവിയർ തലത്തിൽ പോലും അത് നോക്കാം ചില ടെക്നിക്കുകൾ ഉണ്ട് അവയിൽ ചിലത് ഞങ്ങൾ സംസാരിക്കും നിങ്ങൾക്ക് പിന്തുടരുകയോ സ്വീകരിക്കുകയോ ചെയ്യാം അങ്ങനെ ഞങ്ങൾ അവസാന സർക്യൂട്ട് വർക്ക് ചെയ്യുമ്പോൾ പവർ ഡിസ്പേഷനിൽ നിങ്ങൾക്ക് മികച്ച നിയന്ത്രണം ലഭിക്കും അതിനാൽഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യകൾ പ്രധാനമായും ഡൈനാമിക് പവർ കുറയ്ക്കുന്നതിനും സ്റ്റാറ്റിക് പവർ കുറയ്ക്കുന്നതിനുമുള്ളതായിരിക്കും ഡൈനാമിക് പവർ കുറയ്ക്കുന്നതിന് ഞങ്ങളുടെ അവസാന പ്രഭാഷണത്തിൽ നിങ്ങൾ ഡിറൈവ് ചെയ്ത എക്സ്പ്രെഷൻ നമുക്ക് ഓർമ്മിക്കാം ഒരു സാധാരണ CMOS ഗേറ്റിന് ഡൈനാമിക് പവർ ഡിസ്പേഷൻ നൽകുന്നത് ഇതുപോലെയുള്ള ഒരു എക്സ്പ്രെഷനാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആൽഫ എന്നത് ആക്ടിവിറ്റി ഫാക്ടർ ആണ് ഔട്ട്പുട്ട് എത്ര ഇടവിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതായത് അത് ചാർജ് ചെയ്യുകയോ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്യുന്നു C എന്നത് ലോഡ് കപ്പാസിറ്റൻസ് VDD പവർ സപ്ലൈ വോൾട്ടേജ് f എന്നത് ക്ലോക്കിന്റെ ഫ്രിക്വൻസിയാണ് ഇപ്പോൾ നിങ്ങൾ കുറയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ 4 പാരാമീറ്ററുകളിൽ ഏതെങ്കിലും ഒന്ന് കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിനാൽ ഈ തന്ത്രങ്ങളിൽ ഇവയെല്ലാം കുറയ്ക്കുന്നത് ഉൾപ്പെടാം അതിനാൽആക്ടിവിറ്റി ഫാക്ടർ കുറയ്ക്കണമെന്ന് പറയുമ്പോൾ ക്ലോക്ക് ഗേറ്റിംഗ് സ്ലീപ്പ് മോഡ് പോലുള്ള സാങ്കേതിക വിദ്യകളുണ്ട് ഇത് സ്വീകരിക്കാമെന്ന് നമുക്ക് കാണാം ക്ലോക്ക് ഗേറ്റിംഗ് എന്നതിനർത്ഥം ചിലപ്പോൾ ക്ലോക്ക് ആവശ്യമില്ലാതെ വരും നിങ്ങൾക്ക് ഒരു സർക്യൂട്ടിലേക്ക് ക്ലോക്ക് വരുന്നത് നിർത്താം അതിനാൽ ക്ലോക്ക് പ്രവർത്തനരഹിതമാക്കാൻ കഴിയുമെങ്കിൽആക്ടിവിറ്റീസും നിലയ്ക്കും അതിനാൽ ആൽഫ സ്വാഭാവികമായും കുറയും സമാനമായി നിങ്ങൾക്ക് സി ചെറിയ ട്രാൻസിസ്റ്ററുകൾ ഷോർട്ട് വയറുകൾ ചെറിയ ഫാൻ ഔട്ടുകൾഎന്നിവ കുറയ്ക്കാൻ വിവിധ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ച് ലോഡ് കപ്പാസിറ്റൻസ് കുറയ്ക്കാൻ കഴിയും VDD കുറയ്ക്കുന്നത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു കാരണം അത് സ്ക്വയർ ആയി കാണപ്പെടുന്നു അതിനാൽ സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കുന്നതും വളരെ സാധാരണമായ ഒരു സാങ്കേതികതയാണ് എന്നാൽ നിർഭാഗ്യവശാൽ നിങ്ങൾ സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ഡിലേയും വർദ്ധിക്കാൻ തുടങ്ങുന്നു അതിനാൽ ഇത് ഒരു ട്രേഡ് ഓഫ് ഫൈൻ പോലെയാണ് തീർച്ചയായും സ്വീകാര്യമായ തലങ്ങൾക്കപ്പുറമുള്ള പ്രകടനം ത്യജിക്കാതെ നിങ്ങൾക്ക് കോഴ്സിന്റെ ഫ്രിക്വൻസി പരമാവധി കുറയ്ക്കാൻ കഴിയും അതിനാൽ നിങ്ങളുടെ സർക്യൂട്ടിൽ ഒരു പവർ ഡൌൺ മോഡ് ഉണ്ടാകാം അത് ഫ്രിക്വൻസി ഓട്ടോമാറ്റിക്കായി കുറയ്ക്കും ഇപ്പോൾ സ്റ്റാറ്റിക് പവർ കുറയ്ക്കുന്നതിന് ഔട്ട്പുട്ടിന്റെ സ്വിച്ചിംഗ് ഉണ്ടാകുമ്പോഴെല്ലാം സ്റ്റാറ്റിക് പവർ ഉപയോഗിച്ചതായി നിങ്ങൾ ഓർക്കുന്നു അതിനാൽ നിമിഷനേരംകൊണ്ട് പുൾ അപ്പും പുൾ ടൌണും കണ്ടക്ട് ചെയ്യുന്നു നമുക്ക് നിരവധി സാങ്കേതിക വിദ്യകളുടെ സംയോജനം ഉപയോഗിക്കാം നമുക്ക് റേഷ്യഡ് സർക്യൂട്ട് ഉപയോഗിക്കാം റേഷ്യോഡ് സർക്യൂട്ട് എന്നാൽ പുൾ അപ്പ് നെറ്റ്വർക്കും പുൾ ഡൌൺ നെറ്റ്വർക്കും ഉള്ള ഒരു സർക്യൂട്ട് കൺവെൻഷനൽ CMOS എന്നാണ് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഡൈനാമിക് CMOS പോലെയല്ല അവിടെ പുൾ അപ്പ് നെറ്റ്വർക്ക് അത്തരത്തിലുള്ള ഒരു സിംഗിൾ ട്രാന്സിഷൻ മാത്രമാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ പോലെ കാണപ്പെടുന്ന ഒരു സർക്യൂട്ടിൽ നിന്നാണ് അത് സാധാരണയായി റേഷ്യോഡ് സർക്യൂട്ട് എന്ന് നമ്മൾ പരാമർശിക്കുന്നു നമുക്ക് റേഷ്യഡ് സർക്യൂട്ട് ഉള്ളപ്പോഴെല്ലാം ശ്രേണിയിൽ നിരവധി ഗേറ്റുകൾ ഉണ്ടാകും അതിനാൽ ഇത്തരത്തിലുള്ള സ്വിച്ചിംഗ് കറന്റ് ഒഴുകുന്നതിനുള്ള സാധ്യത കുറയും അങ്ങനെ അത് ഓട്ടോമാറ്റിക്കായി കുറയും തിരഞ്ഞെടുത്ത് നമുക്ക് കുറഞ്ഞ ത്രെഷോൾഡ് ഉപകരണങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾ ട്രാൻസിസ്റ്ററിന്റെ ത്രെഷോൾഡ് വോൾട്ടേജ് കുറയ്ക്കുകയാണെങ്കിൽ ഈ സ്റ്റാറ്റിക് പവറും കുറയുന്നു ഇത് ടെക്നിക്കുകളിൽ ഒന്നാണ് തീർച്ചയായും സ്റ്റാറ്റിക് പവറിൽ ലീക്കേജ് പവറും ഉൾപ്പെടുന്നു അതിനാൽ ലീക്കേജ് റിഡക്ഷൻ ടെക്നിക്കിൽ നിരവധി മാർഗങ്ങൾ ഉൾപ്പെടുന്നു അതായത് സ്റ്റാക്ക് ചെയ്ത ഉപകരണങ്ങൾ ട്രാൻസിസ്റ്ററുകളുടെ ഒരു സീരീസ് ബോഡി ബയസ് നമ്മൾ സബ്സ്ട്രേറ്റ് ബയസ് വോൾട്ടേജ് substrate bias voltageമാറ്റുന്നു താപനില പ്രവർത്തനം കുറയ്ക്കുന്നു നിരവധി സാങ്കേതിക വിദ്യകൾ ഉണ്ട് കാരണം ഇവ ലീക്കേജ് കറന്റിനെ നേരിട്ട് ബാധിക്കുന്നു നിരവധി സാങ്കേതിക വിദ്യകൾ അവിടെ ഉണ്ട് അതിനാൽ നമുക്ക് രീതികൾ ഓരോന്നായി നോക്കാം ആദ്യം നമുക്ക് കുറച്ച് പിന്നോട്ട് പോകാം ആൽഫ കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായ ക്ലോക്ക് ഗേറ്റിംഗ് സമീപനത്തിലേക്ക് നോക്കാം ഒരു സർക്യൂട്ടിലെ പവർ ടെസ്സിപേഷൻ സിഗ്നൽ ട്രാന്സിഷൻ ആക്ടിവിറ്റിയെയോ ആൽഫയെയോ ആശ്രയിച്ചിരിക്കുന്നു ക്ലോക്ക് ഗേറ്റിംഗ് അതിൽ അടിസ്ഥാനപരമായി എന്താണ് ഉൾപ്പെടുന്നത് മുഴുവൻ സിസ്റ്റത്തിന്റെയും തലച്ചോറ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സിഗ്നലാണ് ക്ലോക്ക് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു അതിനാൽ ക്ലോക്ക് ട്രാന്സിഷൻസ് നടക്കുമ്പോഴെല്ലാം എല്ലാ സർക്യൂട്ട് ഘടകങ്ങളും സമന്വയത്തിൽ പ്രവർത്തിക്കുന്നു അതിനാൽ സർക്യൂട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങൾ ട്രിഗർ ചെയ്യുന്നത് ക്ലോക്ക് ആണ് അവബോധപൂർവ്വം പറഞ്ഞാൽ ഒരു സർക്യൂട്ടിന്റെ ഒരു ഭാഗം നിലവിൽ ഉപയോഗിക്കാത്തതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ക്ലോക്ക് പൂർണ്ണമായും ഓഫ് ചെയ്തുകൂടാ ആ ഭാഗമെങ്കിലും സിഗ്നൽ സ്വിച്ചിംഗ് പ്രവർത്തനം നിലയ്ക്കും അതിനാൽ വൈദ്യുതി ഉപഭോഗം കുറയും ഇതാണ് ക്ലോക്ക് ഗേറ്റിംഗിന് പിന്നിലെ അടിസ്ഥാന ആശയം എന്നാൽ ഒരു കാര്യം ഞങ്ങൾ ഓർക്കുന്നു നിങ്ങൾ ഒരു ടെസ്റ്റ് എഞ്ചിനീയറാണെങ്കിൽ നിങ്ങളുടെ ടാസ്ക് ടെസ്റ്റിംഗ് ആണെങ്കിൽ ക്ലോക്ക് ഗേറ്റിംഗ് നല്ല ആശയമല്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾ ക്ലോക്ക് ഗേറ്റിംഗ് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷേ ടെസ്റ്റിംഗ് ടാസ്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഗേറ്റിലെ എന്തെങ്കിലും പിശക് കാരണം ക്ലോക്ക് എല്ലാം ചേർന്ന് സബ് സർക്യൂട്ടിൽ എത്തുന്നത് നിർത്തുകയാണെങ്കിൽ ആ സബ് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് മാർഗമില്ല എന്നാൽ കുറഞ്ഞ പവറിന്റെ പരിഗണനയിൽ നിന്ന് ക്ലോക്ക് ഗേറ്റിംഗ് വൈദ്യുതി ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള വളരെ ലളിതമായ ഒരു സാങ്കേതികതയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇത് വീണ്ടും ട്രേഡ് ഓഫിന്റെ കാര്യമാണ് നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് ഞാൻ പറയുന്നത് സജീവമല്ലാത്ത പ്രവർത്തന മൊഡ്യൂളുകളിൽ നിന്ന് ഞങ്ങൾ ക്ലോക്ക് സിഗ്നൽ ഓഫ് ചെയ്യുന്നു ഇതിൽ ചില അധിക ഹാർഡ്വെയർ ഉൾപ്പെട്ടേക്കാം ഈ അധിക ഹാർഡ്വെയർ കാരണം ക്ലോക്ക് സിഗ്നലിൽ ചില അധിക ഡിലെയോ സ്ക്യുവോ ഉണ്ടാകാം ഇതും നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് നമുക്ക് പറയാം എനിക്ക് ഇതുപോലൊരു ലളിതമായ സാഹചര്യമുണ്ടെന്ന് കരുതുക അവിടെ ഒരു സർക്യൂട്ട് ബ്ലോക്ക് ഉണ്ട് അവിടെ നിന്ന് ഇൻപുട്ട് ലോഡ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ എന്റെ പക്കലുണ്ട് അത് ഫങ്ഷണൽ യൂണിറ്റിലേക്ക് നൽകുകയും രജിസ്റ്റർ ഒരു ക്ലോക്ക് ഉപയോഗിച്ച് ലോഡ് ചെയ്യുകയും ചെയ്യുന്നു ഈ ക്ലോക്ക് രജിസ്റ്ററിന് നേരിട്ട് നൽകുന്നതിന് പകരം ക്ലോക്ക് തിരഞ്ഞെടുത്ത് പ്രവർത്തനക്ഷമമാക്കാനോ പ്രവർത്തനരഹിതമാക്കാനോ ഞാൻ ഡിസേബിൾ എന്ന മറ്റൊരു സിഗ്നലും ഉപയോഗിക്കുന്നു അതിനാൽ ഫങ്ഷണൽ യൂണിറ്റ് ആവശ്യമില്ലെന്ന് എനിക്കറിയുമ്പോൾ ഞാൻ ഡിസേബിൾ സിഗ്നൽ 1 ആയി സെറ്റ് ചെയ്യും ഈ OR ഗേറ്റിന്റെ ഔട്ട്പുട്ട് സ്ഥിരമായ ഒന്നായിരിക്കും രജിസ്റ്ററിന്റെ വാല്യൂ മാറില്ല അതിനാൽ ഫങ്ഷണൽ യൂണിറ്റിൽ സിഗ്നൽ ട്രാന്സിഷൻ ഉണ്ടാകില്ല ഗേറ്റിന് ക്ലോക്ക് തിരഞ്ഞെടുത്ത് പ്രവർത്തനരഹിതമാക്കാനാകും എന്നാൽ ക്ലോക്ക് പ്രവർത്തനരഹിതമാക്കുന്നതിന് തീർച്ചയായും നിങ്ങൾക്ക് കുറച്ച് അധിക ലോജിക് ആവശ്യമാണ് കാരണം ഈ സാഹചര്യത്തെ ആശ്രയിച്ച് ഈ ഫംഗ്ഷണൽ യൂണിറ്റ് എപ്പോൾ ആവശ്യമാണ് എപ്പോൾ അത് ആവശ്യമില്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും മനസ്സിലാക്കുകയും വേണം അതിനാൽ സിഗ്നൽ സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ച് അധിക ലോജിക്കും കുറച്ച് അധിക കണ്ട്രോൾ യൂണിറ്റും ആവശ്യമാണ് അതിനാൽ ആ അധിക സർക്യൂട്ടിന് അധിക പവർ ഉപയോഗിക്കാനും കഴിയും ഞാൻ പറഞ്ഞതുപോലെ ഈ ക്ലോക്ക് നെറ്റ്വർക്ക് നിങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത് കൂടുതൽ വിശദമായി കാണും ഡിലെ ഞങ്ങൾ സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് 0 സ്ക്യൂ ക്ലോക്ക് നെറ്റ്വർക്ക് ഉണ്ട് ക്ലോക്ക് സിഗ്നലുകൾ എല്ലാ n ടെർമിനലുകളിലും ഒരേ സമയം എത്തുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾ ഒരു അധിക OR ഗേറ്റ് ഇട്ടു അതിനാൽ ഒരു അധിക ഗേറ്റ് ഡിലെയെക്കാൾ ഈ ക്ലോക്ക് സിഗ്നൽ ഡിലെ നേരിടുന്നു ഒരു അധിക സ്ക്യൂ ഉണ്ടാകും അതിനാൽ രൂപകൽപ്പനയുടെ കൃത്യത പരിശോധിക്കുന്നതിന് സ്ക്യൂ വിശകലനം നടത്തേണ്ടത് ആവശ്യമായി വന്നേക്കാം എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയും നിങ്ങൾ ഒരു ക്ലോക്ക് നെറ്റ്വർക്കിനായി കാണുന്നു നിങ്ങൾക്ക് ധാരാളം ബഫറുകൾ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നു ഇപ്പോൾ ഈ OR ഗേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ബഫറുകളിലൊന്ന് അപ്പോൾ കുറഞ്ഞത് ഡിലെ സന്തുലിതമാകും ആ ബഫർ കുറച്ച് ഡിലെ എടുക്കുന്നു ഇപ്പോൾ ബഫറിന് പകരം ഈ OR ഗേറ്റ് ചിത്രത്തിൽ വരുന്നു ഈ OR ഗേറ്റ് ഡിലെക്ക് കാരണമാകും ഡിലെ അതേപടി തുടരും നിങ്ങൾ ക്ലോക്ക് നെറ്റ്വർക്കിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു ആ OR ഗേറ്റ് പരിഷ്ക്കരിക്കുക ആ ബഫർ പരിഷ്ക്കരിക്കുക OR ഗേറ്റ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രമാണ് അതിനാൽ സ്ക്യൂ പ്രശ്നം ശരിയായി ഉണ്ടാകില്ല അതിനാൽ ഈ രണ്ടാമത്തെ കോമൺ അപ്പ്രോച്ച് സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കലാണ് ഇത് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു കാരണം ഡൈനാമിക് പവർ ഈ സപ്ലൈ വോൾട്ടേജിന്റെ ഈ സ്ക്വയർന് ആനുപാതികമാണെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ പര്യവേക്ഷണം ചെയ്യപ്പെട്ട നിരവധി അപ്പ്രോച്ച്കളുണ്ട് സ്റ്റാറ്റിക് അപ്പ്രോച്ച് ഡൈനാമിക് അപ്പ്രോച്ച് സ്റ്റാറ്റിക് അപ്പ്രോച്ച് നിങ്ങളുടെ സർക്യൂട്ട് നന്നായി വിശകലനം ചെയ്യുന്നു സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് നിങ്ങളുടെ സർക്യൂട്ടിന് കുറച്ച് വൈദ്യുതി ഉപഭോഗം ചെയ്യും മാത്രമല്ല നിങ്ങളുടെ സർക്യൂട്ട് വേഗത കുറയുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ സർക്യൂട്ട് വിശകലനം ചെയ്യാനും ഡിലെയുടെ കാര്യത്തിൽ സർക്യൂട്ടിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ അത്ര നിർണായകമല്ലെന്ന് കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയും മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കാതെ നിങ്ങൾക്ക് അവ അൽപ്പം മന്ദഗതിയിലാക്കാം നിങ്ങൾക്ക് ആ സബ് സർക്യൂട്ടുകൾ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ആ ബ്ലോക്കുകളിലേക്കോ സബ് സർക്യൂട്ടുകളിലേക്കോ വൈദ്യുതി വിതരണം കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ഇതാണ് അടിസ്ഥാന ആശയം നിങ്ങൾ അത് ഡിസൈൻ തലത്തിൽ തന്നെ സ്ഥിരമായി ചെയ്യുന്നു ഇതാണ് സ്റ്റാറ്റിക് അപ്പ്രോച്ച് വിവിധ ഫങ്ഷണൽ ബ്ലോക്കുകൾക്കിടയിൽ സപ്ലൈ വോൾട്ടേജുകളുടെ വിതരണം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് സ്റ്റാറ്റിക് അപ്പ്രോച്ച് പറയുന്നു ഡൈനാമിക് അപ്പ്രോച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഇത് പോലെയാണ് നിങ്ങൾക്ക് ഒരു പ്രോസസറിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അധികാരം ഉണ്ടായിരിക്കാം പ്രോസസ്സറിന്റെ നിലവിലെ പവർ മോഡ് എന്തായിരിക്കുമെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറയാൻ കഴിയും പവർ അപ്പ് പവർ ഡൌൺ ഹൈ സ്പീഡ് സ്ലോ സ്പീഡ് power up power down high speed slow speedഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾക്ക് പവർ മോഡ് ഡൈനാമിക് ആയി നിർവചിക്കാം അതിനാൽ ഇവിടെ വൈദ്യുതി വോൾട്ടേജുകൾ ആവശ്യാനുസരണം മാറ്റാം അതിനാൽ ഈ സമീപനങ്ങളിൽ ചിലത് നമുക്ക് ചിത്രപരമായി നോക്കാം സ്റ്റാറ്റിക് വോൾട്ടേജ് റിഡക്ഷൻ ഞാൻ ഇവിടെ ഒരു ലളിതമായ ഉദാഹരണം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു ഒരു സർക്യൂട്ടിൽ എനിക്ക് 3 ഫംഗ്ഷണൽ മൊഡ്യൂളുകൾ ഉണ്ടെന്ന് കരുതുക ഇവ ഈ 3 ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകൾ കാണിക്കുന്നു ഈ സെൻട്രൽ ബ്ലോക്ക് വേഗത്തിലായിരിക്കണമെന്ന് എനിക്ക് ആവശ്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം എന്നാൽ ഈ രണ്ട് ബ്ലോക്കുകളും പതുക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല അതിനാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ഒരു ജോടി സപ്ലൈ വോൾട്ടേജ് റെയിലുകൾ ഉപയോഗിക്കുന്നു ഒന്ന് കുറഞ്ഞ സപ്ലൈ വോൾട്ടേജിനുള്ളതാണ് മറ്റൊന്ന് ഉയർന്ന സപ്ലൈവോൾട്ടേജിനുള്ളതാണ് അതിനാൽ വേഗത്തിൽ പ്രവർത്തിക്കേണ്ട ബ്ലോക്കിന് ഉയർന്ന സപ്ലൈ വോൾട്ടേജും സാവധാനത്തിൽ പ്രവർത്തിക്കേണ്ട ബ്ലോക്കുകൾക്ക് ലോ സപ്ലൈ വോൾട്ടേജും നൽകുന്നു ഇത് ഒരു സ്റ്റാറ്റിക് രീതിയിലാണ് ചെയ്യുന്നത് അതായത് ഈ വിതരണം എല്ലായ്പ്പോഴും സ്ഥിരമാണ് എന്നാൽ നിങ്ങൾക്ക് ഈ അധിക പവർ നെറ്റ്വർക്കുകൾ കാണാൻ കഴിയുംഒരു പവർ സപ്ലൈ വോൾട്ടേജിന് പകരം ഈ റൂട്ടിംഗ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പവർ സപ്ലൈ വോൾട്ടേജുകൾ ഉണ്ട് അതിനാൽ അധിക പവർ ഡെലിവറി നെറ്റ്വർക്കുകൾ ആവശ്യമാണ് പവർ റൂട്ടിംഗ് കൂടുതൽ സങ്കീർണ്ണമായി മാറുന്നു നമ്മൾ ഇത് പിന്നീട് കാണും ചില പ്രശ്നങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ ഈ ബ്ലോക്കിൽ നിന്ന് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഈ ബ്ലോക്കിലെ ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് നയിക്കുമ്പോഴെല്ലാം ഈ രണ്ട് സർക്യൂട്ടുകളും രണ്ട് വ്യത്യസ്ത വോൾട്ടേജുകളിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുന്നു അതിനാൽ ചിലപ്പോൾ ചില വോൾട്ടേജ് ലെവൽ ട്രാൻസ്ലേഷൻ ആവശ്യമായി വന്നേക്കാം അതിനാൽ ഈ ഇന്റർഫേസുകൾക്കായിinterfaces നിങ്ങൾക്ക് ചില പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഇനി നമുക്ക് ഡൈനാമിക് അപ്പ്രോച്ച് നോക്കാം അതിനാൽ ഞങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾ ഓപ്പറേറ്റിംഗ് വോൾട്ടേജും ഫ്രീക്വൻസിയും ക്രമീകരിക്കുകയാണെന്ന് പറയുന്നു വോൾട്ടേജും ഫ്രീക്വൻസിയും മാത്രമല്ല പെർഫോമൻസ് റിക്യുർമെന്റ് പൊരുത്തപ്പെടുന്നതിന് ഡൈനാമിക് ആയി ക്രമീകരിക്കാൻ കഴിയും ഒരു ആധുനിക പ്രൊസസറിന്റെ processor ആർക്കിടെക്ചറും ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രോസസ്സറുകൾക്ക് നിരവധി പവർ മോഡുകൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും നേരത്തെ പ്രൊസസറുകൾക്ക് പവറിനെക്കുറിച്ച് ആകുലതയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ വിപണിയിൽ എത്തിയിരിക്കുന്ന ഒട്ടുമിക്ക പ്രോസസറുകളും ലാപ്ടോപ്പുകളിലും നിരവധി പവർ മോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം അവയിലൊന്ന് നിങ്ങൾക്ക് സജ്ജമാക്കാൻ കഴിയും പ്രോസസർ ഇത്തരത്തിലുള്ള കോൺഫിഗറേഷനെപിന്തുണയ്ക്കുന്നതിനാൽ ഇത് സാധ്യമാണ് എനിക്ക് ഉയർന്ന പെർഫോമൻസ് മോഡ് വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറഞ്ഞ പെർഫോമൻസ് എന്നാൽ ഉയർന്ന ബാറ്ററി മോഡ് വേണമെന്നോ നിങ്ങൾക്ക് പ്രോസസറോട് പറയാം അതായത് ബാറ്ററിയിൽ നിന്ന് കുറഞ്ഞ ഊർജ്ജം ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ സമയം അങ്ങനെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ രണ്ട് മോഡുകൾ ഉണ്ടാകാം നിരവധി ഇന്റർമീഡിയറ്റ് ലെവലുകൾ ഉണ്ടാകാം ഇത് ഉയർന്ന പെർഫോമൻസ് മോഡ് ആയിരിക്കാം അവിടെ ഉയർന്ന പവർ സപ്ലൈ വോൾട്ടേജ് ഉയർന്ന ഓപ്പറേഷൻ ഫ്രീക്യുൻസി എന്നിവ ഉണ്ടാകാം നിങ്ങൾക്ക് ഒരു പവർ സേവിംഗ് മോഡ് ഉണ്ടായിരിക്കാം കുറഞ്ഞ സപ്ലൈ വോൾട്ടേജ് കുറഞ്ഞ ഓപ്പറേഷൻ ഫ്രീക്യുൻസി നിരവധി ഇന്റർമീഡിയറ്റ് ലെവലുകൾ ഉണ്ടാകാം അതിനാൽ ഈ ഡൈനാമിക് അപ്പ്രോച്ച് ഫ്ലെക്സിബിലിറ്റി നൽകുന്നു കാരണം ഉപയോക്താവിനെയും നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന പ്രോഗ്രാമുകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പവർ ലെവലോ പെർഫോമൻസ് ലെവലോ ക്രമീകരിക്കാൻ കഴിയുമോ എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വീണ്ടും കോൺഫിഗർ ചെയ്യുമ്പോൾ ഒരു മോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ഇതിന് നിരവധി മില്ലിസെക്കൻഡ് എടുക്കാം അതിനാൽ നിങ്ങൾ ഈ ട്രാന്സിഷൻസ് ഇടയ്ക്കിടെ നടത്തരുത് ഇത് നിങ്ങൾ ഓർക്കണം തീർച്ചയായും ഇത് നടപ്പിലാക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ച് അധിക യുക്തി ആവശ്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ പറയുന്നത് ഈ മൾട്ടിപ്പിൾ വോൾട്ടേജ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ചിപ്പിൽ ഘടിപ്പിക്കാൻ കഴിയുക എന്നാണ് നിങ്ങൾക്ക് കുറച്ച് വോൾട്ടേജ് ഐലൻഡ്സ് ഉണ്ടാകാമെന്ന് നിങ്ങൾ കാണുന്നു ഈ സെല്ലുകൾ വരികളായി ക്രമീകരിച്ചിരിക്കുന്ന പ്ലെയ്സ്മെന്റിന്റെ ഒരു സാധാരണ സെല്ലിലേക്ക് നോക്കാം ഈ ഓറഞ്ചും നീലയും രണ്ട് വ്യത്യസ്ത വോൾട്ടേജ് ലെവലുകളെ സൂചിപ്പിക്കാം ഓറഞ്ച് VDD ഉയർന്നതും നീല VDD താഴ്ന്നതും സൂചിപ്പിക്കാം അതിനാൽ ഉയർന്ന പെർഫോമൻസ് ഉള്ള എല്ലാ സെല്ലുകളും ഈ ഓറഞ്ച് വരികളിലും താഴ്ന്ന പെർഫോമൻസ് ഉള്ളത് നീല വരികളിലും സ്ഥാപിക്കും ഒരു ASIC അല്ലെങ്കിൽ പൂർണ്ണമായ ഇഷ്ടാനുസൃത രൂപകൽപ്പനയിലും നിങ്ങൾക്ക് സമാനമായ തത്ത്വചിന്ത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനിയന്ത്രിതമായ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കാം അവയിൽ ചിലത് നീല ബ്ലോക്കുകൾ അവയിൽ ചിലത് ഓറഞ്ച് ബ്ലോക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് അവ നിങ്ങളുടെ ചിപ്പിൽ ഇടാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് സാമാന്യവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്ത വോൾട്ടേജ് അനുവദിക്കാം ഇവയെ ഐലൻഡ്സ് വ്യത്യസ്ത വോൾട്ടേജ് ഐലൻഡ്സ് എന്ന് വിളിക്കുന്നു ഒരേ നിരയിൽ പോലും നിങ്ങൾക്ക് വ്യത്യസ്ത ഐലൻഡ്സ് ഉണ്ടാകാം അതിനാൽ ഒരേ സ്റ്റാൻഡേർഡ് സെൽ വരിയിൽ പോലും നിങ്ങൾക്ക് ചിലത് കുറഞ്ഞ പെർഫോമൻസും ചിലത് ഉയർന്ന പെർഫോമൻസും വ്യത്യസ്ത സപ്ലൈ വോൾട്ടേജും ആകാം പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഈ സപ്ലൈ വോൾട്ടേജുകൾ റൂട്ട് ചെയ്യുന്നതിലെ പ്രശ്നം കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ അവ ഒരുമിച്ച് കലർത്തുകയാണെങ്കിൽ അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കുറഞ്ഞ സപ്ലൈ വോൾട്ടേജിൽ ഉയർന്ന സപ്ലൈ വോൾട്ടേജിലേക്ക് അല്ലെങ്കിൽ തിരിച്ചും സർക്യൂട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരു ലെവൽ കൺവെർട്ടർ level converter ആവശ്യമായി വരാം ഈ സർക്യൂട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഉയർന്ന സപ്ലൈ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്യൂട്ട് നിങ്ങളുടെ പക്കലുണ്ടെന്നും എന്നാൽ താഴ്ന്ന സപ്ലൈ വോൾട്ടേജിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്യൂട്ടിൽ നിന്നാണ് നിങ്ങൾ അത് നൽകുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു ഈ VDDL ഹൈ 1 ആയിരിക്കുമ്പോൾ പോലും ഇത് VDDH ന് തുല്യമല്ല എന്ന് നമുക്ക് പറയാം ഇത് VDDH നേക്കാൾ കുറവാണ് അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഇപ്പോഴും ദുർബലമായേക്കാം ഒരു ചെറിയ കറന്റ് പ്രവഹിച്ചേക്കാം ലെവൽ ട്രാൻസ്ലേഷൻസ് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമായ നിരവധി സർക്യൂട്ടുകൾ ഉണ്ട് നിങ്ങൾക്ക് രണ്ട് സപ്ലൈ വോൾട്ടേജുകൾ ആവശ്യമുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് ആദ്യ സർക്യൂട്ട് പറയുന്നതുപോലെ ഒരു ഗേറ്റ് താഴ്ന്ന സപ്ലൈ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ഈ സർക്യൂട്ടിൽ ഞങ്ങൾക്ക് ഒരൊറ്റ സപ്ലൈ വോൾട്ടേജ് ഉണ്ട് അതിനാൽ ഈ ലീക്കേജ് കറന്റ് ഉണ്ടാകാതെ വോൾട്ടേജ് കൺവെർഷൻ നടത്താൻ നിങ്ങൾക്ക് ഈ സർക്യൂട്ടുകളിലൊന്ന് ഉപയോഗിക്കാം കാരണം ഞങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ലീക്കേജ് ഒരു പ്രധാന പ്രശ്നമാകും ഈ താഴ്ന്നതും ഉയർന്നതുമായ VDD ബ്ലോക്കുകൾ ഒരേ വരികളിൽ മിക്സ് ചെയ്യാൻ കഴിയുന്ന പരിഹാരം ഞാൻ ഇവിടെ നൽകുന്നു നിങ്ങൾ ഒരു പവർ ഗ്രിഡ് power grid പോലെയുള്ള ഒന്ന് നിർവചിക്കുന്നത് പോലെ ലംബമായി നിങ്ങൾ നിരവധി വയറുകൾ പ്രവർത്തിപ്പിക്കുന്നു ഒന്നിടവിട്ട് VDD ലോ ഹൈ ലോ ഹൈ ലോ ഹൈഎന്നത് പോലെ നിങ്ങൾ ഈ ബ്ലോക്കുകൾ വോൾട്ടേജ് ഗ്രിഡുമായി വിന്യസിച്ചിരിക്കുന്നു ഒരിക്കൽ ഓറഞ്ച് പോലെ അവരെ പവർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ VDDH റെയിൽ അവയിലൂടെ കടന്നുപോകണം അവർക്ക് കുറഞ്ഞത് ഒരു നീല VDDL എങ്കിലും ഉണ്ടായിരിക്കണം ഈ റെയിൽ അവയിലൂടെ കടന്നുപോകുന്നു അതിനാൽ നിങ്ങൾ എംബേയ് ചെയ്യുന്നതോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതോ ആയ ഒരു തന്ത്രമാണിത് സെൽ പ്ലേസ്മെന്റിനൊപ്പം ഈ പവർ ലെവലുകൾ ഒന്നിലധികം വോൾട്ടേജ് ലെവലുകൾ എന്നിവ നിങ്ങൾക്ക് പറയാം വോൾട്ടേജ് ഐലൻഡ്കളുടെ സൃഷ്ടിയുമായി നിങ്ങൾ പ്ലെയ്സ്മെന്റ് സമന്വയിപ്പിക്കുകയാണ് അതിനാൽ നെറ്റ്ലിസ്റ്റ് തലത്തിൽ തന്നെ ഈ സെല്ലുകളിൽ ഏതാണ് ഉയർന്ന സപ്ലൈ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നതെന്നും കുറഞ്ഞ സപ്ലൈ വോൾട്ടേജിൽ ഏത് സെല്ലാണ് പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾ നിർവചിക്കുന്നു അതനുസരിച്ച് നിങ്ങൾ ശരിയായ തീരുമാനം എടുക്കുക തീർച്ചയായും ഇത് വളരെ ഫ്ലെക്സിബിളായ കാര്യമാണ് മുഴുവൻ കാര്യങ്ങളും ഡയനാമിക്കായി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഫ്രീക്വൻസിയും വോൾട്ടേജ് സ്കെയിലിംഗും നിങ്ങൾ ഡയനാമിക്കായി ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യാനുസരണം പ്രോസസ്സറിന്റെ പെർഫോമൻസ് ലെവൽ ക്രമീകരിക്കാൻ കഴിയും ഇപ്പോൾ കണക്കിലെടുക്കുന്ന ഘടകം ഇതുപോലുള്ള ഒന്നാണ് നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഒരു സർക്യൂട്ടിൽ ചില ടൈമിംഗ് കൺസ്ട്രയിന്റ് ഉണ്ട് ഡെൽറ്റ ഡിലെക്ക് ശേഷം ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു സർക്യൂട്ട് എനിക്കുള്ളത് പോലെ നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങൾ ഒരു ഫാസ്റ്റ് ക്ലോക്ക് പ്രയോഗിക്കുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കരുതുക ഔട്ട്പുട്ട് ഡെൽറ്റയേക്കാൾ വളരെ നേരത്തെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു തീർച്ചയായും അത് നിങ്ങളുടെ കൃത്യതയുടെ പോയിന്റിൽ നിന്നുള്ള ഒരു പ്രശ്നമല്ല പക്ഷേ പവർ ടെസ്സിപേഷന്റെ വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾ അനാവശ്യമായി കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്നു കാരണം നിങ്ങൾ ആ സർക്യൂട്ട് പ്രവർത്തിപ്പിക്കുന്നത് ഉയർന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ഉയർന്ന VDD ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് അൽപ്പം വൈകിപ്പിക്കാമായിരുന്നതിനാൽ അത് ആവശ്യമില്ല അതിനാൽ നിങ്ങൾ ഫ്രീക്വൻസികൾ ഒരു ലെവലിലേക്ക് മന്ദഗതിയിലാക്കുന്നു എന്നതാണ് ആശയം നിങ്ങൾക്ക് അവകാശമുള്ളതെന്തും ആവശ്യമായ സമയ ബഡ്ജറ്റിൽ ഔട്ട്പുട്ട് നിർമ്മിക്കാൻ ഇത് മതിയാകും ഇതാണ് ഇവിടെ പരാമർശിക്കുന്നത് അത് എല്ലായ്പ്പോഴും ടൈമിംഗ് കൺസ്ട്രയിന്റ് പാലിക്കുന്ന ഏറ്റവും കുറഞ്ഞ സപ്ലൈ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് രണ്ട് സമീപനങ്ങളുണ്ടാകാം ഒന്ന് നിങ്ങൾ ഫ്രീക്വൻസി ക്രമീകരിക്കുക ഡൈനാമിക് ഫ്രീക്വൻസി സ്കെയിലിംഗ് നിങ്ങൾ ഫ്രീക്വൻസി ക്രമീകരിക്കുന്നുണ്ടോയെന്ന് നോക്കൂ നിങ്ങൾ വൈദ്യുതി ലാഭിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ എനർജി അല്ല കാരണം നിങ്ങൾക്ക് ഫ്രീക്വൻസി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നിങ്ങൾ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കംപ്യുറ്റേഷൻ വേഗത്തിൽ പൂർത്തിയാക്കും നിങ്ങൾ ഫ്രീക്വൻസി കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ കംപ്യുറ്റേഷൻ സാവധാനത്തിൽ പൂർത്തിയാക്കും എന്നാൽ ഒരു സർക്യൂട്ടിൽ സംഭവിക്കുന്ന ട്രാന്സിഷൻസിന്റെ എണ്ണം അതേപടി നിലനിൽക്കും അതിനാൽ ടോട്ടൽ എനർജി മാറില്ല ഇൻസ്റ്റാൻറ്റീനേയസ് പവറോ ആവറേജ് പവറോ ആകാം നിങ്ങൾ ഇത് ദീർഘനേരം ചെയ്യുന്നതിനാൽ ആവറേജ് പവർ കുറവായിരിക്കും എന്നാൽ ബാറ്ററിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന എനർജിയുടെ അളവ് അതായത് എനർജി മാറുന്നില്ല എന്നാൽ നിങ്ങൾ ഡൈനാമിക് വോൾട്ടേജ് സ്കെയിലിംഗും ഡൈനാമിക് ഫ്രീക്വൻസി സ്കെയിലിംഗും ചെയ്യുകയാണെങ്കിൽ കാരണം നിങ്ങൾ ഒരു വോൾട്ടേജ് സ്കെയിലിംഗ് നടത്തുകയാണെങ്കിൽ പവർ മാത്രമല്ല എനർജിയും മാറും കാരണം ഫ്രീക്വൻസി നിങ്ങൾ ബാറ്ററിയിൽ നിന്ന് കറന്റ് എടുക്കുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു എന്നാൽ വോൾട്ടേജ് സ്കെയിലിംഗ് വഴി നിങ്ങൾ കറണ്ടിന്റെ വ്യാപ്തി കുറയ്ക്കുന്നു അതായത് നിങ്ങൾ എനർജി ലാഭിക്കുന്നു എന്നാണ് ഡൈനാമിക് വോൾട്ടേജും ഫ്രീക്വൻസി സ്കെയിലിംഗും സംയോജിപ്പിക്കുന്ന സിസ്റ്റം ഞാൻ ഒരു സാധാരണ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിന് ഇനിപ്പറയുന്നവ ആവശ്യമാണ് അതിനാൽ ഒരു ഫേസ് ലോക്ക് ലൂപ്പ് കൺട്രോൾ സർക്യൂട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രോഗ്രാമബിൾ ക്ലോക്ക് ജനറേറ്റർ ഇതിന് ആവശ്യമായി വന്നേക്കാം അതിനാൽ ഒരു സിസ്റ്റത്തിൽ ക്ലോക്ക് ഫ്രീക്വൻസി 33 മെഗാഹെർട്സിന്റെ ഇൻക്രിമെന്റിൽ 200 മുതൽ 700 മെഗാഹെർട്സ് വരെ വിശാലമായ ശ്രേണിയിൽ നിയന്ത്രിക്കാനാകും അതിനാൽ നിങ്ങൾക്ക് വിശാലമായ ഡിസൈൻ സ്പേസ് ലഭ്യമാണെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ക്ലോക്ക് ഫ്രീക്വൻസി പല വ്യത്യസ്ത തലങ്ങളിലേക്ക് ക്രമീകരിക്കാൻ കഴിയും അതുപോലെ നിങ്ങൾക്ക് ഒരു പവർ സപ്ലൈ നെറ്റ്വർക്ക് ഉണ്ട് അത് പ്രോഗ്രാം ചെയ്യാവുന്നതും മിനിമം VDD വാല്യൂ സജ്ജമാക്കാൻ കഴിയും ആ സിസ്റ്റത്തിൽ 32 ലെവലുകളിൽ 1 1 മുതൽ 1 6 വോൾട്ട് വരെ ഉണ്ടെന്ന് പറയുക അതിനിടയിൽ നിങ്ങൾക്ക് വോൾട്ടേജ് നിരവധി ലെവലുകളിലേക്ക് സജ്ജമാക്കാൻ കഴിയും അതിനാൽ ഇവിടെയും നിങ്ങൾക്ക് മികച്ച നിയന്ത്രണത്തോടെ വോൾട്ടേജും ഫ്രീക്വൻസിയും മാറ്റാൻ കഴിയും മൂന്നാമതായി ഈ വോൾട്ടേജ് അല്ലെങ്കിൽ ക്ലോക്ക് ലെവലുകൾ സജ്ജീകരിക്കാൻ ഉപയോഗിക്കാവുന്ന ചില ഇൻസ്ട്രക്ഷൻസ് പ്രോസസറിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇവ ചില ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ് ആണ് ഹാർഡ്വെയർ ലെവൽ ഇൻസ്ട്രക്ഷൻസ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഈ കാര്യങ്ങൾ ആരംഭിക്കുന്നതിനോ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിനോ ഉള്ള ഉത്തരവാദിത്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഏൽപ്പിക്കാൻ കഴിയും അങ്ങനെ അത് ആവശ്യമായ ഫ്രീക്വൻസിയും സപ്ലൈ വോൾട്ടേജും സജ്ജീകരിക്കും അതായത് ടാസ്ക് പൂർത്തീകരണ സമയപരിധി പാലിക്കപ്പെടും അതിനാൽ ഒരു സിസ്റ്റത്തിന് ക്കൂടുതൽ ലോഡ് ഉണ്ടെങ്കിൽ OS അത് കണ്ടെത്തുന്നു അത് വേഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് VDD വർദ്ധിപ്പിക്കുകയോ ചെയ്യാം VDD സ്ഥിരത പ്രാപിച്ചതിന് ശേഷം അതിന് ക്ലോക്ക് ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാനും കഴിയും അതിനാൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കഴിയും എന്നാൽ മറുവശത്ത് സിസ്റ്റം കുറഞ്ഞ ലോഡിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ക്ലോക്ക് മന്ദഗതിയിലാക്കാം തുടർന്ന് PLL പുതിയ ഫ്രീക്വൻസി ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് VDD വേഗത കുറയ്ക്കാം ഇത് സാധാരണയായി ചെയ്യുന്ന മാറ്റങ്ങളുടെ ക്രമമാണ് ഇപ്പോൾ ലീക്കേജ് കുറയ്ക്കുന്നതിനുള്ള സാങ്കേതികതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാധ്യമായ വിവിധ രീതികളുണ്ട് അതിനാൽ ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ നിങ്ങളോട് ഒരു ആശയം നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർസ് സ്റ്റാക്കിംഗ് ഡ്യുവൽ ത്രെഷോൾഡ് പാർട്ടീഷനിംഗ് എന്നിങ്ങനെയുള്ള സാങ്കേതികത ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേരിയബിൾ ത്രെഷോൾഡുകൾ ഉണ്ടാകാം ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം ട്രാൻസിസ്റ്റർ സ്റ്റാക്കിംഗ് എന്നതിനർത്ഥം ഒരു സാധാരണ CMOS സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഈ ട്രാൻസിസ്റ്ററുകളിൽ പലതും ഒരു ശ്രേണിയിൽ കണക്ട് ചെയ്യുന്നതായി കാണുന്നു ആശയം വളരെ ലളിതമാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് നോഡിൽ നിന്നോ VDD നോഡിൽ നിന്നോ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ട്രാൻസിസ്റ്ററുകൾ ഗ്രൌണ്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ ലീക്കേജ് കറന്റ് കൂടുതലായിരിക്കും കാരണം ഈ ട്രാൻസിസ്റ്ററുകളിൽ ഓരോന്നും ഓഫായിരിക്കുമ്പോൾ പോലും അവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും അത് സാധാരണയായി വളരെ ഉയർന്നതാണ് എന്നാൽ സമാന്തരമായി അത്തരം ട്രാൻസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ഈ ലീക്കേജ് കറന്റ് സമാന്തര പാതകൾ കണ്ടെത്തുകയും ഫലപ്രദമായ ലീക്കേജ് കറന്റ് വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് സ്റ്റാക്കിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ട്രാൻസിസ്റ്ററുകളിൽ പലതും ഉണ്ടെങ്കിൽ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് ഈ എല്ലാ ട്രാൻസിസ്റ്ററുകളുടെയും ഓഫ് റെസിസ്റ്റൻസുകളുടെ സം ആയിരിക്കും അത് ഒഴുക്ക് കുറഞ്ഞ ലീക്കേജ് കറന്റിലേക്ക് നയിക്കും ലളിതമാണ് ഇതാണ് അടിസ്ഥാന ആശയം നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസിസ്റ്റർ സീരീസിൽ അടുക്കി വയ്ക്കുന്നു അപ്പോൾ മൊത്തം ലീക്കേജ് കറന്റ് കുറയും ഇത് വളരെ വ്യക്തമാണ് ഇതും വളരെ ജനപ്രിയമായ ഒരു സാങ്കേതികതയാണ് ഏറ്റവും കൂടുതൽ ട്രാൻസിസ്റ്ററുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ നിങ്ങൾ കാണുന്നു അതിനാൽ വിവിധ പ്രദേശങ്ങളിലെ ഡോപ്പിംഗ് ലെവലുകൾ മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററുകളുടെ ത്രെഷോൾഡ് വോൾട്ടേജ് മാറ്റാൻ കഴിയും അതിനാൽ ട്രാൻസിസ്റ്ററുകളുടെ ത്രെഷോൾഡ് വോൾട്ടേജുകൾ ഉപകരണങ്ങളുടെ വേഗതയിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു ഇതാണ് ഈ സമീപനത്തിന് പിന്നിലെ അടിസ്ഥാന ആശയം അതിനാൽ ഞങ്ങളുടെ സർക്യൂട്ട് നെറ്റ്ലിസ്റ്റിൽ ധാരാളം ട്രാൻസിസ്റ്ററുകൾ അടങ്ങിയിരിക്കാമെന്ന് ഞങ്ങൾ പറയുന്നു ഈ ട്രാൻസിസ്റ്ററുകളിൽ ചിലത് ഞങ്ങൾ ലോ ത്രെഷോൾഡ് എന്നും ചില ട്രാൻസിസ്റ്ററുകളെ ഉയർന്ന ത്രെഷോൾഡ് എന്നും തരംതിരിക്കുന്നു ലോ ത്രെഷോൾഡ് വോൾട്ടേജുകൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നു പക്ഷേ അവ കൂടുതൽ ലീക്കേജ് കറന്റ് ഉണ്ടാക്കുന്നു അതിനാൽ ഒരു ട്രേഡ് ഓഫ് ഉണ്ട് സാധാരണയായി എനിക്ക് ഉയർന്ന വേഗത ആവശ്യമില്ലാത്ത സർക്യൂട്ടിന്റെ ഭാഗങ്ങളിൽ ഞാൻ ട്രാൻസിസ്റ്ററുകളെ ഉയർന്ന ത്രെഷോൾഡ് ട്രാൻസിസ്റ്ററുകളിലേക്ക് സജ്ജമാക്കും കാരണം കുറഞ്ഞത് എന്റെ ലീക്കേജ് കറന്റ് കുറവായിരിക്കും പക്ഷേ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന സർക്യൂട്ടുകൾക്കോ ഭാഗങ്ങൾക്കോ അവ കഴിയുന്നത്ര വേഗത്തിൽ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ ട്രാൻസിസ്റ്ററുകളെ ലോ ത്രെഷോൾഡ് ആയി നിർവ്വചിക്കുന്നു അതിനാൽ ഈ രീതിയിൽ എനിക്ക് ട്രാൻസിസ്റ്ററുകളുടെ ഒരു പാർട്ടീഷൻ 2 സെറ്റുകളായി ചെയ്യാം സർക്യൂട്ടിന്റെ ക്രിട്ടിക്കൽ പാത്തുകളും ഡിലെ ആവശ്യകതകളും വിശകലനം ചെയ്തുകൊണ്ട് ഉയർന്ന വേഗതയും കുറഞ്ഞ വേഗതയും അങ്ങനെ എന്റെ സർക്യൂട്ട് കുറഞ്ഞ വൈദ്യുതി ഉപഭോഗത്തിൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഞങ്ങൾ ട്രാൻസിസ്റ്ററുകളെ രണ്ട് ക്ലസ്റ്ററുകളായി വിഭജിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞതുപോലെ അടിസ്ഥാന ലക്ഷ്യം ക്രിട്ടിക്കൽ പാത്തുകളുടെ ഡിലെ കുറയ്ക്കുകയും തീർച്ചയായും മൊത്തത്തിലുള്ള വൈദ്യുതി ഉപഭോഗം താഴ്ന്ന നിലയിൽ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് പൊതുവേ നിങ്ങൾക്ക് വേരിയബിൾ ത്രെഷോൾഡ് ട്രാൻസിസ്റ്ററുകൾ ഉണ്ടായിരിക്കാം ഇവിടെ നോക്കൂ നിങ്ങൾക്ക് രണ്ട് ത്രെഷോൾഡുകൾ മാത്രമല്ല ത്രെഷോൾഡ് അവസാന തലത്തിലേക്ക് പല തലങ്ങളിലേക്കും ക്രമീകരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതികവിദ്യയുണ്ട് അതിനാൽ ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഒരു ട്രാൻസിസ്റ്ററിന്റെ സബ്സ്ട്രേറ്റ് ബയസ് വോൾട്ടേജ് മാറ്റാൻ കഴിയുമെങ്കിൽ ആ വോൾട്ടേജ് മാറ്റാൻ നിങ്ങൾക്ക് ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജും മാറും ഇതാണ് ഈ സമീപനത്തിന് പിന്നിലെ അടിസ്ഥാന ആശയം അതിനാൽ നിങ്ങൾ VTH കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രാൻസിസ്റ്ററുകൾ വേഗത്തിലാകും എന്നാൽ നിങ്ങളുടെ ലീക്കേജ് കറന്റ് വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നു VTH കുറയുന്നു ട്രാൻസിസ്റ്ററിനെ വേഗത്തിലാക്കുന്നു ഇവയാണ് ഞാൻ ഇതിനകം സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ അതിനാൽഅപ്പ്രോച്ച് ഇതുപോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ഈ ട്രാൻസിസ്റ്ററുകൾ ഉണ്ട് ഈ സബ്സ്ട്രേറ്റ് നിങ്ങൾ രണ്ട് വോൾട്ടേജ് സ്രോതസ്സുകളിലേക്ക് ബന്ധിപ്പിക്കുന്നു വി സബ്സ്ട്രേറ്റ് ബയസ് നിങ്ങൾ അതിനെ സബ്സ്ട്രേറ്റ് ബയസ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു ഒന്ന് പി ട്രാൻസിസ്റ്ററിനും ഒന്ന് എൻ ട്രാൻസിസ്റ്ററിനും അതിനാൽ ബോഡി ബയസ് വോൾട്ടേജ് മാറ്റുന്നതിലൂടെ നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജിൽ മാറ്റം ഉണ്ട് സബ്സ്ട്രേറ്റ് ബയസ് വോൾട്ടേജ് മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് 0 4 വോൾട്ടിൽ നിന്ന് ഏകദേശം 0 9 വോൾട്ട് വരെ മാറ്റാമെന്ന് ഇപ്പോൾ ഈ ഗ്രാഫ് നിങ്ങളെ കാണിക്കുന്നു അതിനാൽ റൺ ടൈമിൽ ഈ വോൾട്ടേജുകൾ മാറ്റുന്നതിനുള്ള ചില ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് വീണ്ടും നൽകാം അതുവഴി ട്രാൻസിസ്റ്ററുകളുടെ ത്രെഷോൾഡ് വോൾട്ടേജ് വേഗത്തിലോ സാവധാനത്തിലോ പ്രവർത്തിപ്പിക്കുന്നതിന് ക്രമീകരിക്കാം അതിനാൽ ഇത് വീണ്ടും ഡിസൈനിന് പുതിയ മാനം തുറക്കുന്നു നിങ്ങളുടെ ട്രാൻസിസ്റ്റർ ലെവൽ നെറ്റ്ലിസ്റ്റ് നിങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന രീതി നിങ്ങൾ അവ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന രീതിപാർട്ടീഷൻ ചെയ്യുന്നത്രെഷോൾഡ് ക്രമീകരിക്കുക തുടങ്ങിയവയിൽ ഒരു പുതിയ വെല്ലുവിളികൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നാൽ ഇവിടെയുള്ള ഒരേയൊരു പ്രശ്നം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സൌകര്യം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫാബ്രിക്കേഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് കാരണം പരമ്പരാഗത CMOS ഫാബ്രിക്കേഷന് ഡബിൾ വെൽ ഫാബ്രിക്കേഷൻ പ്രക്രിയ ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് ഫാബ്രിക്കേഷന്റെ ചിലവ് വർദ്ധിപ്പിക്കുന്ന ഒരു ട്രിപ്പിൾ വെൽ ഫാബ്രിക്കേഷൻ പ്രക്രിയ ആവശ്യമാണ് അവസാനമായി ഞങ്ങൾ സ്ലീപ്പ് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് പവർ ഗേറ്റിംഗ് എന്ന് വിളിക്കുന്ന ഒരു രീതി ചർച്ച ചെയ്തു അതിനാൽ ആശയം വളരെ ലളിതമാണ് നിങ്ങൾ സാധാരണയായി കാണുന്നത് ഞങ്ങൾക്ക് ഈ വിഡിഡിയും വിഎസ്എസും എന്ന ഗേറ്റുകളെ നയിക്കുന്ന ഈ രണ്ട് പവർ സപ്ലൈ വോൾട്ടേജുകൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒരു താഴ്ന്ന നിലയിലുള്ള VDV VSSV എന്നിവയിൽ ഒരു ആക്സിലിയറി വോൾട്ടേജ് ഉണ്ട് അതിനാൽ ഞങ്ങൾ പറയുന്നത് ഈ SL 1 ആക്കി ഈ ട്രാൻസിസ്റ്ററുകൾ സജീവമാക്കുന്നതിലൂടെ ചിലപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് സ്ലീപ്പ് മോഡിലേക്ക് സജ്ജമാക്കാൻ കഴിയും അതിനാൽ SL 1 എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററുകളും ഓഫാകും ഇപ്പോൾ ഈ സർക്യൂട്ട് ഈ താഴ്ന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കും അതിനാൽ ഇത് പവർ ഡൌൺ മോഡ് പോലെയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു കംപ്യുട്ടഷനും നടത്താത്ത സർക്യൂട്ടുകൾ സ്ലീപ്പിലേക് പോകുകയാണെങ്കിൽ വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ഇപ്പോൾ ചില സർക്യൂട്ടുകൾ സ്റ്റോറേജ് ഘടകങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്നിവയും ആകാം അതിനാൽ നിങ്ങൾക്ക് ശരിക്കും VDD ഓഫ് ചെയ്യാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ VDD ഓഫ് ചെയ്യുകയാണെങ്കിൽ മെമ്മറി ഘടകങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെട്ടേക്കാം അതിനാൽ നിങ്ങൾ വോൾട്ടേജ് ലെവൽ കുറയ്ക്കുന്ന ഒരു പവർ ഡൌൺ മോഡ് ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് ഡാറ്റ സ്റ്റോറേജ്നിലനിർത്താൻ അനുവദിക്കുക എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം വീണ്ടും വോൾട്ടേജ് ജാക്ക് ചെയ്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങുക സ്ലീപ്പ് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് പവർ ഗേറ്റിംഗ് എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഇതാണ് ഒരു ചിപ്പ് ലെവലിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സെല്ലുകളിൽ കുറച്ച് പവർ സ്വിച്ച് ഉൾപ്പെടുത്താം ഇവയാണ് സ്റ്റാൻഡേർഡ് സെല്ലുകളുടെ വരികൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില സ്വിച്ചുകൾ എംബെഡഡ് embedded അതിനാൽ ഈ സ്വിച്ചുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സ്ലീപ്പ് ട്രാൻസിസ്റ്ററുകൾ ഓണും ഓഫും ക്രമീകരിക്കാൻ കഴിയും അതിനാൽ ഈ സാങ്കേതികവിദ്യ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 1000 തവണ വരെ വൈദ്യുതി കുറയ്ക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ആ അർത്ഥത്തിൽ വളരെ നല്ല രൂപകൽപ്പനയാണ് പവറിനെ നിയന്ത്രിക്കുന്നതിനുള്ള നല്ല ഡിസൈൻ എന്നാൽ തീർച്ചയായും ഇതിന് ധാരാളം അനാലിസിസ് ആവശ്യമാണ് നിങ്ങൾ ഈ സ്ലീപ്പ് മോഡുകൾ നടപ്പിലാക്കുകയോ സംയോജിപ്പിക്കുകയോ ചെയ്യേണ്ട ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുന്നതിനുള്ള സർക്യൂട്ട് ലെവൽ അനാലിസിസും കാല്കുലേഷനും ആവശ്യമാണ് അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു ഞങ്ങളുടെ അടുത്ത പ്രഭാഷണങ്ങളിൽ പവർ കുറയ്ക്കുന്നതിനുള്ള മറ്റ് ചില ടെക്നിക്യുകളെ പറ്റി പറയും